എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I എന്ന കോഴ്സിലെ ലക്ച്ചറുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏക വേരിയബിളിലെ ഡെറിവേറ്റീവുകളും ഡിഫറെൻഷ്യബിലിറ്റിയും എന്ന വിഷയത്തിലുള്ള ലക്ച്ചർ നമ്പർ 11 ആണ് ചർച്ച ചെയ്യുന്നത് അടുത്ത ലക്ച്ചറിൽ നമ്മൾ നിരവധി വേരിയബിളുകളിലെ ഡിഫറെൻഷ്യബിലിറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഏക വേരിയബിളിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ടത് പ്രധാനമാണ് ഒരു ഏക വേരിയബിൾ ഫംഗ്ഷണിന്റെ ഡെറിവേറ്റീവ് എന്താണ് yf എന്നുള്ളത് ഏക വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണെന്ന് കരുതുക x ൽ ഒരു Δx ഇൻക്രിമെന്റ് കൊടുത്ത് കിട്ടുന്ന ഫംഗ്ഷണിന്റെ മൂല്യത്തിൽ നിന്ന് f കുറച്ച് അത് Δx എന്ന ഇൻക്രിമെന്റിനോട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു അനുപാദം ഈ അനുപാദത്തിന് ഇവിടെ ഒരു നിശ്ചിത പരിധി Δx→0 എന്നുള്ളതുണ്ടെങ്കിൽ ഇവിടെ ഈ ലിമിറ്റ് x എന്ന പോയന്റിലെ f എന്ന ഫംഗ്ഷണിന്റെ ഡെറിവേറ്റീവാണെന്ന് പറയും ഇതാണ് ഡെറിവേറ്റീവിന്റെ നിർവചനമായി സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഇവിടെയുള്ള ലിമിറ്റ് Δx→0 നിലനിൽക്കുമെങ്കിൽ നമ്മൾ ഈ ഒരു മൂല്യം ഫംഗ്ഷൻ f ന്റെ ഡെറിവേറ്റീവാണെന്ന് പറയും ഇത് സാധാരണ f എന്നോ y എന്നോ dydx എന്നോ ആയിട്ടാണ് സൂചിപ്പിക്കാറുള്ളത് ഇത് ഇവിടത്തെ കോഷ്യന്റിന്റെ ലിമിറ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവിന്റെ ചിഹ്നമാണ് നമ്മൾ x ൽ Δx ഇൻക്രിമെന്റ് ചേർക്കുകയും അതിൽ നിന്നും ഫംഗ്ഷൻ x ന്റെ മൂല്യം കുറക്കുകയും ഇൻക്രിമെന്റിനാൽ ഹരിക്കുകയും ചെയ്യുക ഈ ലിമിറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷണിന് ഡെറിവേറ്റീവ് ഉണ്ടെന്നും അതിൻറെ മൂല്യം ആ ലിമിറ്റാണെന്നും നമുക്ക് പറയാൻ കഴിയും ഈ ഒരു ഡെറിവേറ്റീവിന് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം f prime y prime over dydx എന്നതാണ് ഇനി എന്താണ് ഡിഫെറെൻഷ്യലും ഡിഫെറെൻഷ്യബിലിറ്റിയും ഇത് കൂടുതൽ ഔപചാരികമായിട്ടുള്ള ഒരു നിർവചനമാണ് ഇതിനു പിന്നിലെ കാരണമെന്തെന്നാൽ നമുക്ക് ഇത് നിരവധി വേരിയബിളുകളുള്ളതിലേക്കും എളുപ്പത്തിൽ ചേർക്കാൻ കഴിയും എന്നതാണ് x എന്ന ഒരു പോയന്റിൽ ഫംഗ്ഷൻ f ഡിഫെറെൻഷ്യബിൾ ആണെന്ന് പറയാം x ന് Δx എന്ന ഒരു ആർബിട്രറി ഇൻക്രിമെന്റ് നൽകുകയാണെങ്കിൽ ഇൻക്രിമെന്റ് Δy ΔyAΔxϵΔx എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും ഇവിടെ Δx പൂജ്യത്തിലേക്ക് പോകുമ്പോൾ എപ്സിലനും പൂജ്യത്തിലേക്ക് പോകുന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ള കോൺസ്റ്റൻറ് A Δx ൽ നിന്നും സ്വതന്ത്രനാണ് അതിനാൽ ഇവിടത്തെ ആശയമെന്തെന്നാൽ നമ്മൾ x ൽ Δx എന്ന ഇൻക്രിമെന്റ് ചേർക്കുമ്പോൾ Δy എന്ന ഇൻക്രിമെന്റ് എഴുതാൻ പറ്റുമെങ്കിൽ f എന്നത് ഒരു ഡിഫെറെൻഷ്യബിളാണ് അപ്പോൾ y ൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകും Δy എന്നത് കൊണ്ടാണ് അത് സൂചിപ്പിക്കുക ΔyA Δxϵ Δx എന്ന് നമുക്ക് എഴുതാമെങ്കിൽ ഇതൊരു ലീനിയർ ടേം ആണ് കാരണം A എന്നത് Δx ൽ നിന്നും ϵ Δx ൽ നിന്നും സ്വതന്ത്രനാണ് Δx→0 ആവുമ്പോൾ ഈ ϵ പൂജ്യത്തിലേക്ക് പോകുമെന്ന സവിശേഷതയുമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളാണെന്ന് പറയാം വലതു വശത്തെ ആദ്യത്തെ പദം അതായത് AΔx അതിനെയാണ് ഡിഫറെൻഷ്യൽ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ y യുടെ ടോട്ടൽ ഡിഫറെൻഷ്യൽ എന്ന് വിളിക്കുന്നത് ഇത് നമ്മൾ dy എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത് അപ്പോൾ dy എന്നത് ഈ A Δx എന്നത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇവ Δy എന്ന പ്രയോഗത്തിന്റെ ലീനിയർ ടേ൦ ആണ് വീണ്ടും Δy ആണ് ഇൻക്രിമെന്റ് അപ്പോൾ Δy എന്നത് f പോലെയാണ് കാരണം ഫംഗ്ഷൻ yf എന്നതാണ് അതിനാൽ ΔyfxΔx f ഈ ഇൻക്രിമെന്റ് Δy എന്ന രൂപത്തിലും നമുക്ക് എഴുതാം Δx ൽ നിന്ന് സ്വതന്ത്രനായ ലീനിയർ ടേ൦ A Δx ϵ Δx എന്ന് വരുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫെറെൻഷ്യബിൾ ആണെന്ന് പറയാം മാത്രമല്ല Δx പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ എപ്സിലൺ പൂജ്യത്തിലേക്ക് പോവണമെന്നത് പ്രധാനമാണ് കൂടാതെ A Δx ൽ നിന്നും സ്വതന്ത്രവുമാവണം ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫെറെൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാനാവും അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡിഫറെൻഷ്യബിലിറ്റിയുടെ നിർവചനം കാണാം ഇവിടെ Δy A Δxϵ Δx എന്നത് കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയും മാത്രമല്ല ഡെറിവേറ്റീവിന്റെ മുമ്പത്തെ നിർവചനവും ഇപ്പോഴത്തേതും യഥാർത്ഥത്തിൽ തുല്യമാണ് ഇനി നമുക്ക് ഇവിടെയുള്ള അടുത്ത സ്ലൈഡിലേക്ക് നീങ്ങാം ഇവിടെ നമുക്ക് ഡെറിവേറ്റീവും ഡിഫറെൻഷ്യബിലിറ്റിയും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപരമായി ഒന്നാണെന്ന് കാണാൻ കഴിയും x എന്ന പോയന്റിൽ ഫംഗ്ഷൻ yf എന്നത് ഡിഫറെൻഷ്യബിൾ ആവാൻ പര്യാപ്തവും അനിവാര്യവുമായ നിബന്ധന എന്താണെന്നാൽ അത് ഒരു പോയന്റിൽ ഒരു ഫൈനൈറ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവണമെന്നതാണ് ഇവിടെ എഴുതിയത് പോലെ ഇത് അനിവാര്യവും പര്യാപ്തവുമാണ് ഇതിനർത്ഥം ഒരു ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ അതിന് ആ പോയന്റിൽ ഒരു ഡെറിവേറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ അതിന് ആ പോയന്റിൽ ഒരു ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എന്നാൽ ആ ഫംഗ്ഷൻ ആ പോയന്റിൽ ഡിഫെറെൻഷ്യബിൾ ആയിരിക്കും അപ്പോൾ ചുരുക്കത്തിൽ ഡെറിവേറ്റീവിനും ഡിഫറെൻഷ്യബിലിറ്റിക്കും മുൻപ് നമ്മൾ നൽകിയ നിർവ്വചനങ്ങൾ ഏക വേരിയബിളിന്റെ കാര്യത്തിൽ തുല്യമാണ് അപ്പോൾ ഡിഫറെൻഷ്യബിലിറ്റി ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് കാണാം അപ്പോൾ f ന് തുല്യമായ y ലുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളാണ് ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളാണെന്ന് നമ്മൾ അനുമാനിക്കുകയും നിർവചനം പ്രകാരം അതിനെ x ൽ Δx ഇൻക്രിമെന്റ് ഉണ്ടാവുമ്പോൾ y ൽ ഉണ്ടാവുന്ന Δy ഇൻക്രിമെന്റ് ആയി പ്രകടിപ്പിക്കുകയും ചെയ്യാം അപ്പൊൾ Δy യെ A Δxϵ Δx എന്നായി എഴുതാൻ പറ്റുമെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളാണ് അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളാണെന്ന് അനുമാനിച്ചിട്ടുണ്ട് അത് കൊണ്ട് തന്നെ ΔyA Δxϵ Δx എന്ന് പ്രകടിപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് എടുക്കാം ലിമിറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇതിനെ Δx കൊണ്ട് ഹരിക്കാം അപ്പോൾ ΔyΔx എന്നത് Aϵ ക്ക് തുല്യമാവും ഇനി നമ്മൾ ഇതിന്റെ ലിമിറ്റ് Δx→0 എന്നായിട്ട് എടുക്കും അപ്പോൾ ഇവിടെ ലിമിറ്റ് എടുക്കുന്നതിലൂടെ ഇത് ΔyΔx ആവുന്നു നിർവചനം പ്രകാരം Δx ൽ നിന്നും സ്വതന്ത്രനായ A Δx എന്ന പദം ഇല്ലാതെ അതിലേക്ക് ϵ ചേർക്കുകയും ചെയ്തതിൽ Δx പൂജ്യത്തോട് അടുക്കുമ്പോൾ ലിമിറ്റിന് തുല്യമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് lim┬Δx→0⁡ΔyΔx ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഡെറിവേറ്റീവിൽ മുമ്പ് കണ്ട കോൺസ്റ്റന്റ് അപ്പോൾ ഇവിടെയുള്ള പദം fxΔx fΔx തന്നെയാവും അതായത് lim┬Δx→0 fxΔx fΔx അപ്പോൾ ഈ പദം മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ സൂചിപ്പിച്ച ഡെറിവേറ്റീവാകും അപ്പോൾ നമുക്ക് ഇവിടെ f A എന്ന് ലഭിക്കുന്നു എന്തെന്നാൽ ഇത് പൂജ്യത്തിലേക്ക് പോവും ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളാണെങ്കിൽ f എന്നത് ലിമിറ്റെടുക്കുമ്പോൾ ഡെറിവേറ്റീവാവുമെന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഡെറിവേറ്റീവ് എന്നത് ലീനിയർ ടേമായ Δx ൽ നിന്നും സ്വതന്ത്രമായ A അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ അതിൻറെ ഡെറിവേറ്റീവ് നിലനിൽക്കുമെന്ന് നമുക്ക് കാണാം ഈ ഡെറിവേറ്റീവ് A എന്നതിന് തുല്യമാവും ഇതാണ് Δy യുടെ പ്രയോഗത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ f ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ f നിലനിൽക്കുകയും അതിന് A എന്ന നിശ്ചിത മൂല്യം ഉണ്ടാവുകയും ചെയ്യും അടുത്തതായി നമുക്ക് ഡെറിവേറ്റീവ് നിലനിൽക്കുമ്പോൾ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്നതാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണാം f ന് A എന്ന നിശ്ചിത തുകയാണെന്ന് നമുക്ക് കരുതാം അതായത് f നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഫംഗ്ഷണിന്റെ ഡെറിവേറ്റീവ് നിലനിൽക്കുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ fxΔx f Δx എന്നതിന്റെ ലിമിറ്റ് A ക്ക് തുല്യമാവും എന്തെന്നാൽ നമ്മൾ ഡെറിവേറ്റീവ് ഫംഗ്ഷനിൽ നിലനിൽക്കുമെന്ന് അനുമാനിച്ചിട്ടുണ്ട് അതായത് ഇതിന് ലിമിറ്റ് നിലനിൽക്കുന്നുവെന്നും അത് A ക്ക് തുല്യമാണെന്നും നമ്മൾ സങ്കൽപ്പിച്ചിരുന്നു ഇത് വ്യക്തമാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷന്റെ lim┬Δx→0 എന്നത് L ന് തുല്യമാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാമെന്നാൽ ഈ f L എന്നതിൽ x എന്ന പോയിന്റിന്റെ ചുറ്റുവട്ടത്തുള്ള വ്യത്യാസം ϵ ക്ക് സമമാണ് ഇവിടെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ Δx→0 ആവുമ്പോൾ ഈ ϵ പൂജ്യത്തിലേക്ക് പോകും എന്ന ഒരു സവിശേഷതയുണ്ട് അപ്പോൾ lim┬Δx→0ϵ എന്നത് f L ന് തുല്യമാവും lim f→L ആവുമ്പോൾ ഇത് പൂജ്യത്തിലേക്ക് പോകും നമ്മൾ ഈ ϵ എന്ന പ്രയോഗത്തെ f L എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ ϵ ക്ക് Δx→0 ആവുമ്പോൾ പൂജ്യത്തിലേക്ക് പോകുന്ന സവിശേഷതയുണ്ടാവും ഈ കോഷ്യന്റിന്റെ പ്രയോഗത്തിൽ limit Δx→0 ഉപയോഗിക്കുമ്പോൾ A കിട്ടുന്നത് സമാനമായ സാഹചര്യമാണ് ഈ കോഷ്യന്റ് fxΔx f Δx നെ നമുക്ക് Aϵ എന്ന രീതിയിൽ എഴുതാം മുൻപ് ഈ ലിമിറ്റിന്റെ വില L എന്നായിരുന്നു ഇവിടെ Δx→0 ആവുമ്പോൾ ϵ→0 ആവുമെന്ന സവിശേഷത ϵ ക്കുണ്ട് ഈ ഒരു ആശയം നമ്മൾ വരുന്ന ലക്ച്ചറുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉൾക്കൊണ്ടു തന്നെ നമ്മൾ Δx→0 ആവുമ്പോൾ പൂജ്യത്തിലേക്ക് പോകുന്ന ഈ ϵ നെ പരിചയപ്പെടുത്തി എന്തുകൊണ്ടെന്നാൽ ഈ കോഷ്യന്റിന്റെ ലിമിറ്റ് A അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ϵ തീർച്ചയായും Δx→0 ആവുമ്പോൾ പൂജ്യം ആവണം ഈ അവസ്ഥയിൽ ഇതിനെ നമുക്ക് fxΔx f എന്നാക്കി തിരുത്തി എഴുതാം ഈ Δx നെ വലതുവശത്തേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് AΔxϵΔx എന്ന് ലഭിക്കും ഈ ϵ ന് Δx→0 ആവുമ്പോൾ പൂജ്യത്തിലേക്ക് പോകുന്ന സ്വഭാവമുണ്ട് ഈ വ്യത്യാസത്തെ അല്ലെങ്കിൽ നമുക്കിവിടെ ലഭിച്ച പ്രയോഗത്തെ നമുക്ക് Δy എന്ന് വിളിക്കാം അപ്പോൾ Δy എന്നതിനെ AΔxϵΔx എന്നായിട്ട് എഴുതാം ഇവിടെ A Δx ൽ നിന്നും സ്വതന്ത്രമാണ് കാരണമെന്തെന്നാൽ ഇത് A യുടെ പരിധി നിർണയിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ A Δx ൽ നിന്നും സ്വതന്ത്രമാണെന്നും ഡിഫറൻഷ്യബിലിറ്റിയുടെ നിർവചനം പ്രകാരം f ഡിഫറെൻഷ്യബിൾ ആണെന്നും നമ്മൾ കണ്ടെത്തി ഇത് പറയുന്നത് f ഡിഫറെൻഷ്യബിൾ ആണെന്നാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തെന്നാൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഫംഗ്ഷന്റെ ഡിഫറെൻഷ്യൽ A Δx ആണ് എന്നതാണ് അതായത് ഈ ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യൽ എന്നത് ഡെറിവേറ്റീവും ആർബിട്രൽ ഇൻക്രിമെന്റ് Δx ഉം തമ്മിലുള്ള ഗുണനമാണ് എന്തെന്നാൽ A എന്നത് f ന്റെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ ഈ പദം dy ആണ് അപ്പോൾ ഡിഫറെൻഷ്യൽ എന്ന് വിളിക്കുന്ന ഈ dy എന്നത് ഡെറിവേറ്റീവിന്റെയും സ്വതന്ത്ര വേരിയബിളിന്റെ ഇൻഗ്രിമെന്റ് Δx ഉം തമ്മിലുള്ള ഗുണനമാണ് ഒന്നുകൂടെ ലളിതമാക്കുകയാണെങ്കിൽ dy എന്നത് fΔx ആണ് ഒരു വേരിയബിളിലുള്ള ഫംഗ്ഷന്റെ കാര്യത്തിൽ ഡെറിവേറ്റീവ് എടുക്കുന്നതും ഡിഫറെൻഷ്യബിലിറ്റി എടുക്കുന്നതും അടിസ്ഥാനപരമായി ഒരേ ആശയം ആണെന്ന് നമ്മൾ പഠിച്ചു അടുത്തതായി നമുക്ക് ഡിഫറെൻഷ്യലിന്റെ ജ്യാമിതീയ വ്യാഖ്യാനത്തിലേക്ക് നീങ്ങാം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഡിഫറൻഷ്യലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ജ്യാമിതീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആവുമ്പോൾ Δy യെ A Δxϵ Δx എന്നതായി എഴുതാം അതുപോലെ നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ ഈ A f അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കണ്ടെത്തി ഇതു തന്നെയാണ് നമ്മൾ കണ്ടതും ഇതു തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയതും എന്തെന്നാൽ ഡിഫറെൻഷ്യൽ y എന്നത് Adx അല്ലാതെ മറ്റൊന്നുമല്ല A എന്നത് f അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഡിഫറെൻഷ്യൽ എന്നത് f dx എന്നതാണ് ഇവിടെ ഈ ഇൻഗ്രിമെന്റും ഡിഫറെൻഷ്യലും ജ്യാമിതീയ അടിസ്ഥാനത്തിൽ എന്താണ് എന്ന് നോക്കാം നമുക്കൊരു y എന്ന ഫംഗ്ഷൻ ഉണ്ടെന്നു കരുതാം അപ്പോൾ ഇതാണ് നമ്മുടെ x ആക്സിസ് ഇതാണ് നമ്മുടെ y ആക്സിസ് അപ്പോൾ നമുക്ക് y fഎന്ന വക്രരേഖ ലഭിക്കും അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് ലഭിക്കും നമുക്ക് x എന്ന ഒരു പോയിന്റ് ഇവിടെ എടുക്കാം അപ്പോൾ വക്രരേഖയിൽ ഒരു മൂല്യം ലഭിക്കും അപ്പോൾ ഇവിടത്തെ പോയിന്റ് x ഉം f ഉം ആണ് ഇവിടത്തെ ഉയരം f ആണ് അതിനാൽ ഈ പോയിന്റ് x f ആണ് പിന്നീട് നമ്മൾ x ലേക്ക് ഇൻക്രിമെന്റ് Δx നൽകും ഇവിടെ നമുക്ക് മറ്റൊരു പോയിന്റ് xΔx ഉണ്ട് അപ്പോൾ ആ ഫംഗ്ഷണിന്റെ മൂല്യം നമ്മൾ f xΔx എന്നും എടുക്കും അതിനാൽ ഈ x കോർഡിനേറ്റും y കോർഡിനേറ്റും കാരണം ഈ പോയിന്റ് xΔx എന്നാവും ഈ പോയിന്റിലെ ഫംഗ്ഷന് മൂല്യം fxΔx എന്നതാണ് ഇനി നമ്മൾ ഒരു സ്പർശരേഖ ഇവിടെ വരക്കും കാരണം നമ്മൾ ഇവിടെ ഡെറിവേറ്റീവുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് അതിന്റെ ചിത്രത്തിലേക്ക് പിന്നീട് വരാം അപ്പോൾ നമ്മൾ ഈ പോയിന്റ് x ൽ ഈ കുത്തിട്ട വരയാൽ സൂചിപ്പിക്കുന്ന ഒരു സ്പർശരേഖ വരക്കുന്നു x ൽ നമ്മൾ നൽകിയ ഇൻഗ്രിമെന്റ് സ്വാഭാവികമായും Δx ആണ് അപ്പോൾ ഇത് Δx അല്ലെങ്കിൽ dx എന്ന പദമാണ് ഇത് എന്തുകൊണ്ടാണ് dx എന്ന് എഴുതിയിട്ടുള്ളത് എന്നതിലേക്ക് നമുക്ക് വരാം ഇതാണ് ഇൻഗ്രിമെന്റ് Δy അതിനാൽ x ൽ നമ്മൾ ഇൻഗ്രിമെന്റ് Δ Δx ആയി നൽകിയപ്പോൾ Δy ൽ ഉണ്ടായ മാറ്റം ഇതാണ് അപ്പോൾ ഇത് Δy ൽ ഉണ്ടായ ഒരു മാറ്റമാണ് മുമ്പ് y ഇതായിരുന്നു ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ y ഇങ്ങനെ ആയിരിക്കുന്നു അപ്പോൾ ഇവിടെയുള്ള മാറ്റം Δy ആണ് അല്ലെങ്കിൽ Δy ഇൻഗ്രിമെന്റ് ഇവിടെയുള്ള dy ആണ് dy ആണ് ഇവിടത്തെ ആദ്യത്തെ ഡെറിവേറ്റീവ് f dx അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവെങ്കിൽ സ്പർശരേഖയായ f ഈ കോണിന്റെ സ്പർശരേഖയാണ് ഇത് ഇതിനോട് ഹരിച്ചാൽ ലഭിക്കുന്നതിന് തുല്യമാണത് ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള നീളം f Δx ആയിരിക്കും കാരണം ഈ ത്രികോണത്തിൽ ഈ കോണിന്റെ സ്പർശരേഖ പോയിന്റ് x ലെ f ആണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് നമ്മൾ dy എന്ന് വിളിക്കുന്ന ഈ നീളത്തിന് തുല്യമാണ് അത് Δx ന് തുല്യമാണ് അപ്പോൾ dy ഇവിടെ Δx f ആണ് അല്ലെങ്കിൽ ഇവിടെയുള്ള നീളം fΔx ആണ് ഇതിനെയാണ് നമ്മൾ dy എന്ന് പറയുന്നത് ഇനി ഞാൻ ഇത് മായിച്ചു കളയട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ നിർവചനത്തിൽ ഉള്ള dy ഇനി y ലെ ഇൻഗ്രിമെന്റ് x ൽ Δx ഇൻഗ്രിമെന്റ് കൊടുത്ത ഫംഗ്ഷനിലെ ഇൻഗ്രിമെന്റ് Δy ആണ് നമ്മുടെ നിർവചനത്തിൽ y ന്റെ ഡിഫറെൻഷ്യൽ dy ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാനാവുന്നത് എന്തെന്നാൽ ഈ Δx ഉം Δy ഉം ഫംഗ്ഷനിൽ ഉള്ള മാറ്റങ്ങളാണ് നമ്മൾ x ൽ Δx മാറ്റം നൽകിയപ്പോൾ ഫംഗ്ഷനിൽ Δy മാറ്റമുണ്ടായിട്ടുണ്ട് കൂടാതെ dy എന്നത് സ്പർശരേഖയിൽ ഉണ്ടായ മാറ്റവുമാണ് അപ്പോൾ നമ്മൾ x ൽ Δx ഇൻഗ്രിമെന്റ് നൽകിയപ്പോൾ അതിന്റെ ഫംഗ്ഷനും സ്പർശരേഖയിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ dy യുടെയും dx ന്റെയും അളവ് സ്പർശരേഖയോടൊപ്പം മാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ഈ സ്പർശരേഖയിൽ നമ്മൾ Δx മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ നമുക്ക് dx എന്ന് വിളിക്കാം രണ്ടും സമമാണ് കൂടാതെ ഇവിടത്തെ സ്പർശരേഖയിൽ ഉണ്ടായ മാറ്റം dy ഉം ആണ് അതുകൊണ്ടാണ് ഇവിടെ dx എന്നും dy എന്നും ഉള്ള ചിഹ്നമുള്ളത് എന്നാൽ മറുവശത്ത് ഫംഗ്്ഷൻ f ന്റെ Δy Δx അളവുകളും മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു Δx ഇൻഗ്രിമെന്റ് ചേർക്കുകയാണെങ്കിൽ y ന്റെ ഫംഗ്ഷനിൽ Δy ഇൻഗ്രിമെന്റ് ഉണ്ടാവുന്നതാണ് ഇത് നമ്മൾ Δy എന്നതു കൊണ്ട് അല്ലെങ്കിൽ Δx അല്ലെങ്കിൽ dx എന്നതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഇവ ഒന്നാണ് കാരണം x ൽ ഉണ്ടായ മാറ്റത്തെ നമ്മൾ Δx എന്നത് കൊണ്ടോ Δy എന്നത് കൊണ്ടോ സൂചിപ്പിക്കുകയാണെങ്കിൽ രണ്ടും സമമാണ് എന്നാൽ y ആക്സിസിൽ ഇതാണ് ഫംഗ്ഷനിലുണ്ടായ മാറ്റം ഇതാണ് ഫംഗ്ഷണിന്റെ സ്പർശരേഖയിൽ ഉണ്ടായ മാറ്റം അതിനാൽ ഇവിടെ ഒരു മാറ്റം ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സൂത്രവാക്യത്തിൽ നിന്ന് തന്നെ ഇത് നമുക്ക് കണ്ടെത്താനാകും കാരണം ഇവിടെ നമ്മുടെ അടുത്തുള്ള നിർവചനമനുസരിച്ച് dy എന്നത് dx ന്റെയും f ന്റെയും ഡെറിവേറ്റീവിന് തുല്യമാണ് ഇനി നമ്മൾ yx എന്ന് അനുമാനിക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് 1 dx അല്ലെങ്കിൽ Δx എന്നാവും കാരണം ഇത് A Δx എന്ന ലീനിയർ പദം ആയിട്ടാണ് യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇത് നിർവ്വചിക്കേണ്ടത് f Δx എന്ന രീതിയിലാണ് അപ്പോൾ dx എന്നത് വെറും Δx എന്നാവും അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പിൽ നിന്ന് dx എന്നും dy എന്നുമുള്ള ചിഹ്നങ്ങളുടെ അളവ് സ്പർശരേഖക്ക് അനുസരിച്ച് മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ dx ഉം ഉണ്ട് dy ഉം ഉണ്ട് വീണ്ടും Δx ഉം Δy ഉം ഉണ്ട് ഇനി ഇവിടെ ഡിഫറെൻഷ്യബിലിറ്റിയുടെ ജ്യാമിതീയ വ്യാഖ്യാനമുണ്ട് അതിന്റെ നിർവചനം നമ്മൾ തിരുത്തി എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒരു പോയിന്റ് x0 y0 ൽ ഒരു ഫംഗ്ഷൻ yf ഡിഫറെൻഷ്യബിൾ ആണെന്ന് പറയപ്പെടുന്നു ഈ പോയിന്റിന്റെ ചുറ്റുവട്ടത്ത് ഒരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് അപ്പ്രോക്സിമെറ്റ് ചെയ്യാമെങ്കിൽ അപ്പോൾ ഇത് ഡിഫറൻഷ്യബിലിറ്റിയുടെ മറ്റൊരു വ്യാഖ്യാനമാണ് നേരത്തെ നമ്മൾ ലീനിയർ പ്രയോഗത്തിന്റെയും ϵΔx ന്റെയും വീക്ഷണത്തിലാണ് എഴുതിയിരുന്നത് അപ്പോൾ ഇവിടെയും ഈ ഫംഗ്ഷൻ അതിനെ ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് ഈ പോയിന്റിന്റെ ചുറ്റുവട്ടത്ത് അപ്പ്രോക്സിമെറ്റ് ചെയ്യാമെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന മറ്റൊരു വ്യാഖ്യാനവുമുണ്ട് അതിനാൽ ഗണിത ശാസ്ത്ര പ്രകാരം ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ f എന്ന ഫംഗ്ഷനെ x0 y0 പോയിന്റിന്റെ ചുറ്റുവട്ടത്ത് ഒരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് അപ്പ്രൂക്സിമെറ്റ് ചെയ്യാമെങ്കിൽ അവ ഡിഫറെൻഷ്യബിളാണ് അപ്പോൾ ഇതാണ് ഇവിടെ നൽകിയിട്ടുള്ള ലീനിയർ ഫംഗ്ഷൻ f Aϵ ഇത് മുന്നേ ഉള്ളതിന് സമാനമായ ഒരു നിർവചനമാണ് അപ്പോൾ നമ്മൾ ഈ f ഇടതു വശത്തേക്ക് കൊണ്ടു വരികയാണെങ്കിൽ ഇത് Δy എന്നത് പോലെയാവും ഇവിടെ നമുക്ക് Δx ഉം Aϵ ഉം ഉണ്ട് വീണ്ടും Δx x ലുള്ള മാറ്റമാണ് പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്തെന്നാൽ ഈ f നെ x0 y0 എന്ന പോയിന്റിന്റെ ചുറ്റുവട്ടത്ത് ഒരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതെന്താണ് അർത്ഥമാക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലീനിയർ ഫംഗ്ഷൻ കൂടാതെ ϵ ഉണ്ട് എന്നാൽ x→x 0 ആവുമ്പോൾ ϵ→0 x ആവുന്നതാണ് അതിനാൽ ഈ ഒരു പദം വളരെ ചെറുതാണ് കാരണം ഇതും പൂജ്യം ആവും അതും പൂജ്യം ആവും അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് x x0 ടെ അടിസ്ഥാനത്തിൽ ക്വാഡ്രാറ്റിക് പദവും x x0 ടെ അടിസ്ഥാനത്തിൽ ലീനിയർ പദവുമുണ്ട് ഇത് അർത്ഥമാക്കുന്നത് x0 പോയിന്റിന്റെ ചുറ്റുവട്ടത്തെങ്കിലും ഈ ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് ഈ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാനാകും അപ്പോൾ ഇത് x ന്റെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷനിലെ കർവിന്റെ സ്പർശരേഖയുടെ സമവാക്യം പോയിന്റ് x0 f ലുള്ള ഫംഗ്ഷന്റെ സ്പർശരേഖയുടെ സമവാക്യം തന്നെയാണ് കർവ് yf ആണ് അപ്പോൾ ഇതാണ് x ആക്സിസ് yx ഇവിടെയാണ് ഇവിടെയുള്ളത് കർവ് yf ആണ് ഈ x0 f പോയിന്റിൽ ഒരു സ്പർശരേഖ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്തെന്നാൽ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്ത് ഒരു ലീനിയർ ഫംഗ്്ഷൻ കൊണ്ട് അപ്പ്രോക്സിമെറ്റ് ചെയ്യാവുന്നതാണ് ഈ ലീനിയർ അപ്പ്രോക്സിമഷന്റെ കൃത്യത നമ്മൾ x എവിടെയാണ് എടുക്കുന്നത് എന്ന് അനുസരിച്ചിരിക്കും ഉദാഹരണത്തിന് ഈ പോയിന്റ് ആണ് x എങ്കിൽ ഇത് നല്ല രീതിയിൽ അപ്പ്രോക്സിമെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറിച്ച് ഇത് x0 നിന്നും അകന്ന ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അല്ല അപ്പ്രോക്സിമെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പോയിന്റിന്റെ ചുറ്റുവട്ടത്തെങ്കിലും നമുക്ക് ഒരു ലീനിയർ ഫംഗ്ഷൻ കൊണ്ട് അപ്പ്രോക്സിമെറ്റ് ചെയ്യാമെങ്കിൽ ഈ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷ്യബിൾ എന്ന് വിളിക്കാവുന്നതാണ് ഇതിനു സമാനമായി അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായി ഈ f നെ നമുക്ക് ലീനിയർ ഫംഗ്ഷണിലേക്ക് എപ്സിലൺ കൂട്ടി എഴുതാമെങ്കിൽ ഇവിടുത്തെ മാറ്റം x x 0 ആണ് ഇവിടെ ϵ→0 ആണ് അപ്പോൾ ഈ മാറ്റമനുസരിച്ച് ഇതൊരു ലീനിയർ പദമല്ല ഇതൊരു നോൺലീനിയർ പദമാണ് അപ്പോൾ നമുക്കിവിടെ ലീനിയർ പദവും ഉണ്ട് നോൺലീനിയർ പദവും ഉണ്ട് ഇതിന്റെ കാര്യത്തിൽ നമ്മൾ എഴുതിയിട്ടുള്ള സ്പർശരേഖയുടെ സമവാക്യം ഇതാണ് ഇനി ഇതുവരെ നമ്മൾ പഠിച്ച ഡിഫറെൻഷ്യബിലിറ്റിയെ നമുക്ക് പരിശോധിക്കാം അടിസ്ഥാനപരമായി മൂന്ന് ആശയങ്ങളാണുള്ളത് ലിമിറ്റ് എടുത്തുകൊണ്ടും കോഷ്യന്റിന്നാലും വിലയിരുത്തപ്പെടുന്ന ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പാണ് അതിലൊന്ന് അപ്പോൾ ഈ ലിമിറ്റ് നിലനിൽക്കുന്നുവെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണ് അല്ലെങ്കിൽ ആ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് നമുക്ക് പറയാം കാരണം അത് ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റിക്ക് തുല്യമാണ് ഇത് നമ്മൾ f അല്ലെങ്കിൽ dy dx അല്ലെങ്കിൽ y എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ആശയം Δydyϵ Δx എന്ന പ്രയോഗം നമുക്ക് dy യുടെയും ϵ Δx ന്റെയും വീക്ഷണത്തിൽ എഴുതാം അതിൽ dyA Δx ആണ് ഇൻക്രിമെൻറ് ഇതിനെയാണ് ഡിഫറെൻഷ്യൽ പദമെന്ന് വിളിക്കുന്നത് അപ്പോൾ Δy ഈ രൂപത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളത് ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമാണ് മൂന്നാമത്തേത് ഈ ഒരു പദത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഈ dy നമ്മൾ ഇടത് വശത്തേക്കെടുത്ത് അത് Δx കൊണ്ട് ഹരിച്ച് അതിനു ശേഷം ഈ ലിമിറ്റ് എടുക്കുകയും ചെയ്യുക Δx പൂജ്യത്തിലേക്ക് പോകുമ്പോൾ എപ്സിലൺ പൂജ്യത്തേക്ക് പോകുമെന്നതിനാൽ ഈയൊരു പ്രയോഗം പൂജ്യമാവും അപ്പോൾ ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കാൻ ഒന്നുകിൽ കോഷ്യന്റ് പൂജ്യമാകുന്ന ഇതോ അല്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഉള്ളതോ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മൂന്ന് ആശയങ്ങളുണ്ട് ഒന്നാമത്തെ ഉദാഹരണമായി നമ്മൾ കാണിക്കുന്നത് ഫംഗ്ഷൻ fx2 ഡിഫറെൻഷ്യബിൾ ആണെന്നുള്ളത് വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ yx2 എന്നും നൽകിയിട്ടുള്ളതിനാൽ Δy എന്നത് fxΔx f എന്നതിന് തുല്യമാവും അപ്പോൾ xΔx2 f എന്നും അത് x2 എന്നുമാവും ഇത് വികസിപ്പിച്ചാൽ നമുക്ക് x2Δx22xΔx x2 എന്ന് ലഭിക്കും അപ്പോൾ ഈ ഒരു വാക്യം ഇല്ലാതാവുകയും നമുക്ക് ഒരു 2xΔx ഉം Δx2 ഉം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ലഭിക്കുന്നത് 2xΔx Δx എന്നാണ് ഇവിടെ നമുക്ക് AΔx എന്നും ϵΔx എന്നുമുള്ള രൂപങ്ങളുണ്ട് അതിനാൽ Δx→0 ആവുമ്പോൾ ϵ സ്വാഭാവികമായും പൂജ്യമാവും ഇവിടെ 2x എന്നത് A ആണ് മാത്രമല്ല Δx ഇവിടെ നൽകിയിട്ടുമുണ്ട് അതിനാൽ നമ്മൾ ഡിഫറെൻഷ്യബിലിറ്റിക്ക് ഉപയോഗിച്ച ഫോർമാറ്റ് നമ്മുടെ പക്കലുണ്ട് ഇതിനർത്ഥം ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്നും ഡെറിവേറ്റീവ് വാല്യൂ ആയ A ലീനിയർ ഭാഗത്ത് Δx ന്റെ കൂടെയുള്ള പദം f ആണ് മാത്രമല്ല ഇത് എപ്സിലൺ ആണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്നും അതിന്റെ ഡെറിവേറ്റീവ് 2 x ആണെന്നുമാണ് മറ്റൊരു വിധത്തിൽ ഇവിടെയുള്ള കോഷ്യന്റ് lim┬Δx→0 fxΔx fΔx എന്നാണെന്ന് കാണിക്കാനാകും ഇവിടെ fxΔx f മുൻപേ നൽകിയിട്ടുണ്ട് അതിനാൽ 2xΔx Δx2 എന്ന വാക്യം ഇവിടെയുണ്ട് അതിനെ Δx കൊണ്ട് ഹരിച്ചതിനു ശേഷം ലിമിറ്റ് Δx→0 എന്നെടുക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ 2x എന്ന പദവും Δx എന്ന പദവും ഉണ്ട് എന്നിട്ട് നമ്മൾ ലിമിറ്റ് Δx→0 എന്നെടുക്കും ഇത് പൂജ്യത്തിലേക്ക് പോവുകയും നമുക്ക് 2x എന്നുള്ളത് മാത്രമേ ലഭിക്കുകയുമുള്ളൂ അപ്പോൾ x ന്റെ ഏത് സംഖ്യക്കും ഈ ലിമിറ്റുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ ഈ ഫംഗ്ഷൻ മൊത്തം ഡൊമൈനിലും ഡിഫറെൻഷ്യബിൾ ആണ് അല്ലെങ്കിൽ നമുക്കതിന്റെ അനുപാദവും കാണിക്കാൻ സാധിക്കും നമ്മൾ Δy dy എന്നെടുക്കുമ്പോൾ അത് Δx2 എന്നാവും അത് Δx കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ Δx മാത്രമേ ബാക്കി ആവുകയുള്ളൂ ഇതിന്റെ lim┬Δx→0 എടുക്കുകയാണെങ്കിൽ ഇത് പൂജ്യത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത് Δy ഈ രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിന്റെ ലിമിറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടോ ഇവിടെയുള്ള കോഷ്യന്റ് എടുത്തു കൊണ്ടോ ഉള്ളത് ഡിഫറെൻഷ്യബിലിറ്റി കാണിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ ആശയമാണ് ഇവിടെ ഈ ഉദാഹരണം കാണിക്കുന്നത് yx2 എന്നാണ് 01 ആവുമ്പോൾ Δy ഉം dy ഉം നമ്മൾ കണ്ടെത്തി അപ്പോൾ ഇവിടത്തെ പോയിന്റ് x2 ആണ് ഇതെല്ലാമാണ് ഇൻഗ്രിമെന്റ് അപ്പോൾ ഇവിടെ നമുക്ക് ΔyfxΔx f എന്നും dyfdx എന്നും കിട്ടും അപ്പോൾ ഈയൊരു ടേബിൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ Δy എന്നത് f ആയും x എന്നത് 2Δx എന്നും ആവും ആദ്യത്തേത് 1 ആവും അപ്പോൾ 1 f ഇനി ഇവിടെ f ഉണ്ട് കൂടെ x x2 ഉം അപ്പോൾ 9 ഉം f ഉം x2 എന്നുള്ളത് 4 എന്നാവും അപ്പോൾ ഇതിന്റെ മൂല്യം 5 എന്നാണ് അപ്പോൾ ഇവിടെ 5 ആണ് ഇനി dy അപ്പോൾ f ഇവിടെ 2 x എന്നാണ് അപ്പോൾ 2 x dx dx എന്നതും Δx എന്നതും സമമാണ് അപ്പോൾ ഇവിടെ 2 ഉണ്ട് 2x ഉം ഉണ്ട് ഇത് 4 ആവും dx 1 ആണ് അപ്പോൾ നമുക്ക് 4 കിട്ടും സമാനമായി Δx എടുക്കുകയാണെങ്കിൽ നമുക്ക് 0 41 ലഭിക്കും അപ്പോൾ dy 0 40 ആവും ഇനി ചെറിയ Δx എടുക്കുകയാണെങ്കിൽ Δy നമുക്ക് 0 0401 എന്ന് ലഭിക്കും ഇവിടെ നമുക്ക് 0 0400 ലഭിക്കും അപ്പോൾ Δx വലുതായപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ എന്താണ് കണ്ടെത്തിയത് എന്നാൽ ഈ രണ്ടും Δy ഉം dy ഉം സമമല്ല എന്നാണ് അപ്പോൾ അവ തമ്മിലുള്ള മാറ്റം വലുതാണ് dy ഈ y ലുള്ള മൊത്തം മാറ്റത്തെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നില്ല പക്ഷേ Δx ചെറുതാവുമ്പോൾ നമ്മൾ ചെറിയ ഇൻഗ്രിമെന്റ് ചേർക്കുകയാണെങ്കിൽ ഈ dy Δy എന്ന പദത്തെ നല്ല രീതിയിൽ അപ്പ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ട് ആ പോയിന്റിന്റെ ചുറ്റുവട്ടത്തെങ്കിലും ലീനിയർ പദം കൊണ്ട് അപ്പ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് f1∛2 എന്ന ഒരു ഫംഗ്ഷന്റെ x1 എന്ന പോയിന്റിൽ ഉള്ള ഡിഫറെൻഷ്യബിലിറ്റി നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇതിന്റെ ഡിഫറൻസ് Δy ആയിട്ട് എടുക്കുകയാണെങ്കിൽ കാരണം x1 അപ്പോൾ f1Δx f അതിനാൽ 1Δx നമ്മൾ ഇവിടെ ചേർക്കാം അപ്പോൾ ഇത് 1 എന്നും ഇത് Δx2 എന്നുമാവും ക്യൂബ് റൂട്ട് f 1എന്നുമാവും അപ്പോൾ നമുക്ക് ∛Δx2 എന്ന് മാത്രം ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഇവിടുത്തെ കോഷ്യന്റും ഇവിടുത്തെ ലിമിറ്റും 0 ആയി കൊണ്ട് ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആവുന്ന രീതിയിൽ ഒരു നമ്പർ A കണ്ടെത്താനാവുമോ എന്ന് പരിശോധിക്കാം അപ്പോൾ അത്തരമൊരു A നമുക്ക് കണ്ടെത്താനാവുമോ എന്ന് നോക്കാം അപ്പോൾ ഇവിടത്തെ കോഷ്യന്റ് ആയിട്ടുള്ള dy A Δx Δx ആണ് അപ്പോൾ കോഷ്യന്റ് പൂജ്യമാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് വിളിക്കാം ഇനി നമുക്ക് അത്തരമൊരു A കണ്ടെത്താനാവില്ലെങ്കിൽ നമ്മൾ ആ ഫംഗ്്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കോഷ്യന്റ് Δy A ΔxΔx ഇതിനെ നമുക്ക് ഈ Δx കൊണ്ട് ഹരിക്കാം അപ്പോൾ നമുക്ക് അവിടെ A ലഭിക്കും ഇപ്പോൾ ഇവിടെയുള്ളത് ΔyΔx ആണ് ഇവിടെ Δy എന്നുള്ളത് Δx213 ആവും അതിനെ നമ്മൾ Δx കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അതിന്റെ പവർ ⅔ എന്നാവും അത് മൈനസും ആയിരിക്കും അപ്പോൾ ഇതൊന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ΔyΔx എന്ന പദം അതിൽ Δy എന്നത് Δx23 ആണ് പിന്നെ നമുക്ക് Δx ഉണ്ട് അപ്പോൾ ഇത് Δx23 എന്നാവും അപ്പോൾ Δx 13 A അതിനാൽ നമുക്ക് ഇവിടെ കാണാനാവുന്നതെന്തെന്നാൽ വലതു വശത്തുനിന്ന് Δ x പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ഫംഗ്ഷൻ ∞ യിലേക്കാണ് പോകുന്നത് ഉദാഹരണത്തിന് Δx പോസിറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ Δx ഇടതു വശത്തുനിന്ന് ∞ ലെക്കാണ് അഭിമുഖീകരിക്കുന്നതെങ്കിൽ Δx നെഗറ്റീവിൽ നിന്ന് പൂജ്യത്തിലേക്കാണ് പോകുന്നത് ഈ സാഹചര്യത്തിൽ ഈ ലിമിറ്റായ A Δx വലതുവശത്ത് നിന്ന് അഭിമുഖീകരിക്കുമ്പോൾ ∞ ആയിരിക്കും Δ x ഇടതുവശത്തു നിന്നാണ് അഭിമുഖീകരിക്കുന്നതെങ്കിൽ A എന്ന നമ്പർ കണക്കിലെടുക്കാതെ ഇത് ∞ ആവും ഇത് അർത്ഥമാക്കുന്നത് നമുക്ക് അത്തരമൊരു കോൺസ്റ്റൻഡ് ലഭിക്കുകയില്ല എന്നതാണ് അതിനാൽ ഈ കോഷ്യന്റിന് നിശ്ചിത ലിമിറ്റ് ഉണ്ടാവും ലിമിറ്റ് ഡിഫറെൻഷ്യബിലിറ്റിക്കായി പൂജ്യം തന്നെയാവണം അതിനാൽ നമുക്ക് ഒരു നിശ്ചിത നമ്പർ ആയ A ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഈ കോഷ്യന്റിന്റെ ലിമിറ്റ് Δx പൂജ്യത്തിലേക്ക് പോകുമ്പോൾ പൂജ്യമായിരിക്കും അതിനാൽ ഈ ലിമിറ്റ് വാസ്തവത്തിൽ നിലനിൽക്കുകയില്ല അതു കൊണ്ടുതന്നെ ഈ കാര്യത്തിൽ xA എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല ഇനി അവസാന ഭാഗത്തേക്ക് വരുകയാണെങ്കിൽ A Δxϵ Δx എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ Δy നമുക്ക് എഴുതാമെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് പറയാം അവിടെ A Δx ൽ നിന്ന് സ്വതന്ത്രവും എപ്സിലൺ പൂജ്യത്തിലേക്ക് പോകുമെന്ന രീതിയിൽ അത് Δx ന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത ഒരു നിർവചനം A Δx എന്ന ഈ പദം പോയിന്റ് x y ൽ y യുടെ ടോട്ടൽ ഡിഫറെൻഷ്യൽ എന്നാണ് വിളിക്കപ്പെടുന്നത് അത് Δy എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് A യുടെ മൂല്യം x ലുള്ള f ൻറെ ഡെറിവേറ്റീവ് ആണ് ഒരു ഫംഗ്ഷൻ yf എന്നതിനെ നമ്മൾ ഡിഫറെൻഷ്യബിൾ എന്ന് വിളിക്കുക അതിന്റെ കോഷ്യന്റ് ആയ ഡെറിവേറ്റീവ് നിലനിൽക്കുമ്പോഴാണ് പക്ഷെ നമ്മൾ കണ്ട രണ്ട് നിർവചനങ്ങളും സമതുല്യമാണ് ഡിഫറെൻഷ്യൽ dyfdx എന്ന് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലായതെന്തെന്നാൽ ഇത് ഒരു ചിഹ്നം മാത്രമല്ല മറിച്ച് രണ്ട് ഡിഫറെൻഷ്യലിന്റെയും അനുപാദമാണ് കാരണം dy f dx ആണെന്നത് യുക്തിയുള്ളതാണ് അപ്പോൾ dy ഉം dx ഉം വേർതിരിച്ച് എഴുതുന്നത് യുക്തിയുള്ളതാകുന്നു ഇത് നമ്മൾ 2 വേരിയബിളിലുള്ള ഡിഫറെൻഷ്യബിലിറ്റി അടുത്ത ലക്ച്ചറിൽ ചർച്ച ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്രധാന കാര്യമെന്തെന്നാൽ നമ്മൾ ഏക വേരിയബിളിലുള്ള ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റി ആദ്യം മനസ്സിലാക്കിയത് പ്രധാനമായും മൂന്ന് ആശയങ്ങളിലൂടെയാണ് അതായത് ഡെറിവേറ്റീവ് ഉൾപ്പെട്ട് കൊണ്ടും പിന്നീട് ലീനിയർ പ്രയോഗവും കൂടാതെ ലിമിറ്റ് 0 ത്തിലേക്ക് എഴുതുന്നതുമെല്ലാം നമുക്ക് ഡിഫറെൻഷ്യബിലിറ്റി നൽകുന്നു അപ്പോൾ ഈ രണ്ട് വേരിയബിളുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് എന്താണ് കാണാൻ കഴിയുക എന്നാൽ ഈ ഡെറിവേറ്റീവുകൾ ഉള്ളതുകൊണ്ട് മാത്രം x ൽ നിന്നുള്ള ഭാഗികമായ ഡെറിവേറ്റീവും y ൽ നിന്നുള്ള ഭാഗികമായ ഡെറിവേറ്റീവും 2 ഡിഫറെൻഷ്യബിലിറ്റിക്ക് സഹായിക്കുകയോ തുല്യമാവുകയോ ചെയ്യില്ല ഭാഗികമായ ഡെറിവേറ്റീവുകൾ ഉണ്ടാവുക എന്നതിനേക്കാളേറെ ഡിഫറെൻഷ്യബിലിറ്റി ഒരു വ്യത്യസ്ത ആശയം ആയിരിക്കും എന്നാൽ ഏക വേരിയബിളിന്റെ കാര്യത്തിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റിവുണ്ടെങ്കിൽ എന്നാൽ ആ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആയിരിക്കും അല്ലെങ്കിൽ തിരിച്ചും ആയിരിക്കും ഇനി ഇതെല്ലാമാണ് ഈ ഒരു ലക്ച്ചർ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ